ഇന്റെലക്ച്വൽ പ്രോപർട്ടി എന്നത് സർവ്വകലാശാലകളിൽ ഒരു പാഠ്യവിഷയമായി പഠിപ്പിച്ചിരുന്ന പാരമ്പര്യമില്ല ഇന്റെലക്ച്വൽ പ്രോപർട്ടി ലോ ഇന്ത്യൻ നിയമ വിദ്യാലയങ്ങളിൽ ഒരു നിയമ വിഷയമായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടും അധികകാലമായില്ല 1990 കളിലാണ് അത് ആരംഭിച്ചിരിക്കുന്നത് ഇന്റെലക്ച്വൽ പ്രോപർട്ടി ലോയുടെ വളർച്ചയും അതിന് അന്താരാഷ്ട്രതലത്തിലുള്ള അംഗീകാരവും ഒരേസമയം സംഭവിച്ചു എന്നത് ഒരു യാദൃശ്ചികതയാണ് ഇന്റെലക്ച്വൽ പ്രോപർട്ടി റൈറ്റ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ഒന്നാമതായി റൈറ്റുകളെക്കുറിച്ച് അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു രണ്ടാമതായി ഈ അവകാശങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചും മൂന്നാമതായി അവകാശങ്ങൾ എങ്ങനെ നടപ്പിൽ വരുത്താം എന്നതിനെകുറിച്ചും അത് സംസാരിക്കുന്നു അവകാശങ്ങൾ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം അവയെ എങ്ങനെ നടപ്പിൽ വരുത്താം എന്നിവയാണ് ഇതിൻറെ നിയമ വിഷയങ്ങൾ ഒരു നിയമ വിഷയം എന്ന നിലയിൽ നിയമ വിദ്യാർത്ഥികളും വക്കീലന്മാരും ഇത് പഠിച്ചിരിക്കേണ്ടതാണ് ഇന്റെലക്ച്വൽ പ്രോപർട്ടി റൈറ്റിന്മേൽ താല്പര്യമുള്ള മറ്റൊരു വിജ്ഞാനശാഖയാണ് മാനേജ്മെൻറ് അതൊരു പ്രത്യേക വിഷയമായി മാനേജ്മെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ലെങ്കിലും ഇന്റെലക്ച്വൽ പ്രോപർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് പാഠ്യവിഷയമായി വരാറുണ്ട് സംരംഭകത്വ പാഠ്യക്രമത്തിൻറെ ഭാഗമായോ അല്ലെങ്കിൽ വ്യാപാര പാഠ്യക്രമത്തിൻറെ നിയമവശങ്ങളുടെ ഭാഗമായോ ഇന്റെലക്ച്വൽ പ്രോപർട്ടി റൈറ്റ് പാഠഭാഗത്ത് ഉൾപ്പെടുന്നു ഈ പറഞ്ഞ കോഴ്സുകളിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ് സ്കൂളുകളിൽ IPR പഠിപ്പിക്കുന്നത് സാധാരണ കാണാറുണ്ട് നിയമ വിദ്യാലയങ്ങളിൽ അതിൻറെ നിയമവശം പഠിപ്പിക്കുമ്പോൾ മാനേജ്മെൻറ് വിദ്യാലയങ്ങളിൽ ഐ പി ഇന്റെലക്ച്വൽപ്രോപർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാണ് പഠിപ്പിക്കുന്നത് നടപ്പിൽ വരുത്താനുള്ള അവകാശത്തിൻറെ അടിസ്ഥാന തത്വങ്ങളിൽ നമ്മൾ പ്രവേശിക്കുന്നില്ല അവകാശങ്ങൾ എങ്ങനെ ലംഘിക്കപ്പെട്ടു അവ എങ്ങനെ നിർമ്മിച്ചെടുക്കാം ഇത്തരം കാര്യങ്ങളൊന്നും മാനേജ്മെൻറ് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നില്ല അവിടെയുള്ള ഏക ശ്രദ്ധ എങ്ങനെ ഐ പി ഇന്റെലക്ച്വൽ പ്രോപർട്ടി കൈകാര്യം ചെയ്യാം എന്നതാണ് ചില കൌതുകമുണർത്തുന്ന പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് എങ്ങനെ ലിമിറ്റഡ് ലൈഫ് മാത്രമുള്ള ഇന്റെലക്ച്വൽപ്രോപർട്ടിയെ അൺലിമിറ്റഡ് ലൈഫുള്ള ഇന്റെലക്ച്വൽ പ്രോപർട്ടിയാക്കാം എന്നുള്ള ഒരു അവലോകനം നടന്നിട്ടുണ്ട് മാനേജ്മെൻറ് സ്കൂളുകളിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ അവഗാഹം നേടിയിരിക്കണം പേറ്റന്റ്സ് കോപ്പിറൈറ്റ് ഡിസൈൻസ് ഇവ പരിമിതമായ ആയുസ്സുള്ള ഇൻൻറലെക്ച്വൽ പ്രോപർട്ടികളാണ് എന്നാൽ ട്രേഡ് മാർക്കും ട്രേഡ് സീക്രട്ട്സും അപരിമിതമായ ആയുസ്സുള്ള ഇന്റെലക്ച്വൽ പ്രോപർട്ടികളാണ് എന്ന് വെച്ചാൽ അവക്ക് എക്സ്പെയറി ഡേറ്റ് ഇല്ല എന്നർത്ഥം അവയുടെ കാലാവധി തീരുന്നില്ല മാനേജേഴ്സ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ പരിമിതമായ ആയുസ്സുള്ള പ്രോപ്പർട്ടികൾ അപരിമിതമായ ആയുസ്സുള്ള പ്രോപ്പർട്ടികൾ ആക്കാമെന്നാണ് ഇന്റെലക്ച്വൽ പ്രോപർട്ടികളുടെ കൈ കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇത് വിശദമായി പഠിക്കുന്നതാണ്